ഹലോ സെക്യുർ സിസ്റ്റം എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ ഭാഗമായി ഈ ഡെമോൺസ്ട്രേഷൻ ലേക്ക് സ്വാഗതം മുമ്പത്തെ demonstrationൽ ഒരു C കോഡ് എടുത്തിട്ട് strcpy കാരണം സംഭവിക്കുന്ന ഒരു അപകടസാധ്യത പരിശോധിച്ചു 100 ബൈറ്റുകളിൽ കൂടുതലുള്ള പ്രത്യേക ലോക്കൽ ബഫറിന് Overflow സംഭവിക്കുമ്പോൾ ഒരു സെഗ്മെൻറേഷൻ fault സൃഷ്ടിക്കാൻ ചെയ്യാൻ കഴിയും എന്ന് നമ്മൾ കണ്ടു അങ്ങിനെ സംഭവിക്കുമ്പോൾ റിട്ടേൺ അഡ്രസ് overwrite ചെയ്യപ്പെടുന്നതാണ് എന്ന് GDB മുഖാന്തരം കണ്ടു എങ്ങനെ ആ ആക്രമണം വർദ്ധിപ്പിക്കാനും ഒരു പ്രത്യേക പേലോഡ് ആ പ്രോഗ്രാമിലേക്ക് കടത്തിവിടാൻ ആകും എന്ന് നമ്മൾ കണ്ടു നമ്മൾ trial run ചെയ്യാൻ പരിഗണിക്കുന്ന പേലോഡ് ഒരു ഷെൽ സൃഷ്ടിക്കാൻ ഉള്ളതാണ് കാരണം ആക്രമണകാരിക്ക് ഷെൽ ഉണ്ടെങ്കിൽ സിസ്റ്റത്തിൽ മികച്ച നിയന്ത്രണം ഉണ്ടായിരിക്കും ഒരു ആക്രമണകാരിക്ക് യഥാർത്ഥത്തിൽ ഒരു ഷെൽ നേടാൻ കഴിയുമെന്നും ഈ ഷെല്ലിന് സൂപ്പർ യൂസർൻറെ പ്രത്യേക അവകാശങ്ങൾ ഉണ്ടെന്നും കരുതുക എങ്കിൽ Attackerന് റൂട്ട് ഉപയോക്താവിന് ചെയ്യാൻ കഴിയുന്ന എന്തും ചെയ്യാൻ കഴിയും മുമ്പത്തെപ്പോലെ നമ്മൾ Bit Bucket repository ൽ ലഭ്യമായ കോഡുകൾ ഉപയോഗിക്കും ഈ കോഡുകൾ nptel codesmodule2 എന്ന ഡയറക്ടറിയിൽ ഉണ്ട് ഇത് ടെസ്റ്റ്കോഡാണ് ടെസ്റ്റ്കോഡിന് രണ്ട് ഫംഗ്ഷനുകൾ ഉണ്ട് ഒരു കോപ്പിയർ ഫംഗ്ഷനും ഒരു main ഫംഗ്ഷനും main ഫംഗ്ഷൻ argv1 കമാൻഡ് ലൈൻ ആർഗ്യുമെന്റുകളായി എടുത്തിട്ട് അത് കോപ്പിയർ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു കോപ്പിയർ ഫംഗ്ഷന് സ്ട്രിംഗിലേക്ക് STR എന്ന ഒരു പോയിന്റർ ഉണ്ട് ഇത് strcpy ഫംഗ്ഷൻ invoke ചെയ്തുകൊണ്ട് STR ൽ നിന്ന് ബഫറിലേക്ക് ക്യാരക്ടർ ഒന്നൊന്നായി '0' അഥവാ null character കിട്ടുന്നതു വരെ കോപ്പി ചെയ്തു കൊണ്ടിരിക്കും ബഫർ വെറും 100 ബൈറ്റുകളുള്ളതിനാൽ ഇവിടെ അപകടസാധ്യത സംഭവിക്കുന്നുവെന്നത് ശ്രദ്ധിക്കുക ബഫർ ഓവർഫ്ലോയ്ക്ക് കാരണമാകുന്ന ഒരു ഒരു null ടെർമിനേറ്റർ ക്യാരക്ടർ കിട്ടുന്നതു വരെ strcpy ഇത് തുടരും ഈ ചൂഷണം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എക്സിക്യൂഷൻ സമയത്ത് ഏത് ഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് പേലോഡ് യഥാർത്ഥത്തിൽ ഈ ടെസ്റ്റ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് stop ആക്കുന്നതിന് കാരണമാകുമെന്ന് തിരിച്ചറിയുക എന്നതാണ് ഇത് ചെയ്യുന്നതിന് നമുക്ക് find payload എന്ന ചെറിയ സ്ക്രിപ്റ്റ് ഉപയോഗിക്കാം find payload ഒരു ചെറിയ പൈത്തൺ സ്ക്രിപ്റ്റാണ് മാത്രമല്ല ഇത് ഈ പ്രത്യേക കേസിൽ 108 തവണ ഒരു സ്ട്രിംഗ് S സൃഷ്ടിക്കുന്നു ഉദാഹരണത്തിന് ഇവിടെ 8 ചേർത്താൽ പ്രിന്റ് പാഡിംഗ് സ്റ്റേറ്റ്മെന്റിന് യഥാർത്ഥത്തിൽ A 8 തവണ പ്രിന്റു ചെയ്യാനാകും find payload A 8 തവണ പ്രിന്റുചെയ്യും അതുപോലെ 64 എന്ന് കൊടുത്താൽ 64 characters നീളമുള്ള ഒരു സ്ട്രിംഗ് ലഭിക്കും ഇതിനെ ടെസ്റ്റ്കോഡിലേക്കുള്ള കമാൻഡ് ലൈൻ ആർഗ്യുമെൻറായി കൈമാറുന്നതിന് ഇനിപ്പറയുന്നവ ചെയ്യുന്നു നമ്മൾ ടെസ്റ്റ് കോഡ് താഴെ പറയുന്ന പോലെ റൺ ചെയ്യും നമ്മൾ ആദ്യം ചെയ്യുന്നത് find payloadൽ നിന്നുള്ള ഔട്ട്പുട്ട് E1എന്ന ഫയൽ ലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഫയൽ E1 64 A കൾ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം ടെസ്റ്റ്കോഡിലേക്കുള്ള ഇൻപുട്ടായി E1 അയയ്ക്കുക എന്നതാണ് E1 ന്റെ ഉള്ളടക്കങ്ങൾ പരിശോധിക്കുമ്പോൾ ടെസ്റ്റ് കോഡ് E1 64 A's ൽ നിന്നും ഇൻപുട്ട് എടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു ടെസ്റ്റ് കോഡിൽ നിർവചിച്ചിരിക്കുന്ന ബഫറിന്റെ വലുപ്പത്തേക്കാൾ 64 കുറവായതിനാൽ ഓവർഫ്ലോ സംഭവിക്കുന്നില്ല ടെസ്റ്റ് കോഡ് വിജയകരമായി പൂർത്തിയാക്കുന്നു എന്നാൽ Aകളുടെ എണ്ണം 64 ൽ നിന്ന് 128 ആക്കുകയാണെങ്കിൽ എന്തുസംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ find payload റൺ ചെയ്തു ഔട്ട്പുട്ട് E2ൽ സംഭരിക്കുന്നു അതിനാൽ E2 ഇപ്പോൾ 128 Aകൾ ഉൾക്കൊള്ളുന്നു ഇപ്പോൾ നിങ്ങൾ ടെസ്റ്റ് കോഡ് റൺ ചെയ്യുകയാണെങ്കിൽ മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലെ ബഫർ ഓവർഫ്ലോയും സെഗ്മെന്റേഷൻ fault ഉം സംഭവിക്കും ഇപ്പോൾ ഈ പ്രത്യേക സ്ട്രിംഗിന്റെ ദൈർഘ്യം മാറ്റുന്നതിലൂടെ ഈ പ്രശ്നത്തിന് കാരണമാകുന്ന ഇൻപുട്ടിന്റെ കൃത്യമായ ദൈർഘ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയും 104 എന്ന് മാറ്റിക്കൊണ്ട് find payload റൺ ചെയ്യുകയാണെങ്കിൽ 104 ബൈറ്റിന്റെ നീളം E2 ൽ സംഭരിക്കാൻ സാധിക്കും അത് പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ 104 നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല മറുവശത്ത് ഇത് 108 ആക്കി കൃത്യമായി ചെയ്തുകഴിഞ്ഞാൽ "done" എന്ന് അച്ചടിക്കുകയും ഒരു സെഗ്മെന്റേഷൻ തകരാറുണ്ടാകുകയും ചെയ്യുന്നു കാരണം string length 108 ആകുമ്പോൾ സ്റ്റാക്കിൽ സംഭരിച്ചിരിക്കുന്ന ഫ്രെയിം പോയിന്റർ തിരുത്തിയെഴുതപ്പെടും പക്ഷേ റിട്ടേൺ അഡ്രസ്സ് തിരുത്തി എഴുതില്ല അതിനാൽ ഫംഗ്ഷൻ അതിൻറെ കോഡിൽ കാണുന്നതു പോലെ എക്സിക്യൂട്ട് ചെയ്യപ്പെടും copier അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കുന്നു സ്റ്റാക്കിലുള്ള ഫ്രെയിം പോയിന്റർ പുനരാലേഖനം ചെയ്യപ്പെട്ടുവെങ്കിലും റിട്ടേൺ അഡ്രസ്സ് മാറുന്നില്ല അങ്ങിനെ main ഫംഗ്ഷൻ ലേക്ക് തിരിച്ചു വരികയും കൂടാതെ printf എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നിരുന്നാലും ഫ്രെയിം പോയിന്റർ മേൽപ്പറഞ്ഞതുപോലെ overwrite ആയതിനാൽ mainന് വൃത്തിയായി പുറത്തുകടക്കാൻ കഴിയില്ല അതിനാലാണ് printf ഫംഗ്ഷൻ എക്സിക്യൂഷൻ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഒരു സെഗ്മെന്റേഷൻ തകരാർ കിട്ടുന്നത് ഇപ്പോൾ മറുവശത്ത് നമ്മൾ പാഡിംഗ് 108 ൽ നിന്ന് 112 ആക്കി മാറ്റുന്നുവെങ്കിൽ അതിനർത്ഥം നമുക്ക് നാല് അധിക ബൈറ്റുകൾ പാഡിംഗ് ഉണ്ടെന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഫ്രെയിം പോയിന്റർ മാത്രമല്ല അതിനടുത്തുള്ള അടുത്തുള്ള മെമ്മറിയും overwrite ചെയ്യപ്പെടും അതുകൊണ്ട് റിട്ടേൺ അഡ്രസ്സ് മാറും അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക്പ്രതീക്ഷിക്കാനാകുന്നത് copier ഫംഗ്ഷന് mainലേക്ക് മടങ്ങാൻ കഴിയില്ല എന്നതാണ് അതിനാൽ 108 ന് പകരം 112 പേലോഡുപയോഗിച്ച് നമ്മൾ ഈ പ്രോഗ്രാം വീണ്ടും റൺ ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്ത സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് നമുക്ക് കാണാൻ കഴിയും mainക്കുള്ള മടക്കം പരിഷ്ക്കരിച്ചതിനാലും 0x41414141 എന്ന ഇൻവാലിഡ് ലൊക്കേഷനിലേക്ക് മടങ്ങാൻ copier ശ്രമിക്കുന്നതിനാലുമാണിത് ഈ ലൊക്കേഷൻ നിങ്ങൾ റിട്ടേൺ അഡ്രസ്സിൽ ചേർത്തിട്ടുള്ള A കളാണ് അതിനാൽ അടുത്തതായി നമ്മൾ നോക്കുന്നത് നിർദ്ദിഷ്ട പേലോഡ് എക്സിക്യൂട്ട് ചെയ്യുക എന്നതാണ് next underscore എന്ന് വിളിക്കുന്ന ഫയൽ നമുക്ക് നോക്കാം ഇത് നാല് ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു നോപ്സ് ഷെൽ കോഡ് കുറച്ച് പാഡിംഗ് ഒടുവിൽ EIP ഷെൽ കോഡ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യേണ്ടത് ഇവയെല്ലാം ഉപയോഗിച്ച് ബഫർ പൂരിപ്പിക്കുക എന്നതാണ് 64 നോപ്പുകൾ ഉണ്ടായിരിക്കണം ഇവിടെ 32 ബൈറ്റുകളുള്ള ഒരു ഷെൽ കോഡ് ഉണ്ട് തുടർന്ന് നമുക്ക് 112 64 32 ബൈറ്റുകളുടെ വലുപ്പമുള്ള ചില പാഡിംഗ് ഉണ്ട് ഒടുവിൽ FFFFCF70 എന്ന value ഉണ്ട് ഈ value കൃത്യമായി എന്താണ് എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാം ബഫർ ഓവർഫ്ലോ സമയത്ത് 100 ബൈറ്റുകൾ fill ചെയ്ത ശേഷം സ്റ്റാക്കിൽ സൂക്ഷിച്ചിരിക്കുന്ന ഫ്രെയിം പോയിന്റർ പുനരാലേഖനം ചെയ്യപ്പെടും അടുത്തതായി mainക്കുള്ള റിട്ടൺ അഡ്രസ്സ്പുനരാലേഖനം ചെയ്യപ്പെടും നമുക്ക് ഇപ്പോൾ വേണ്ടത് ഈ മടക്ക വിലാസം ഷെൽ കോഡിലേക്ക് പോയിന്റു ചെയ്യണം എന്നതാണ് അതിനാൽ കൃത്യമായി മെമ്മറിയിൽ ഷെൽ കോഡ് ഉള്ളിടത്ത് gdb ഉപയോഗിക്കേണ്ടതുണ്ട് മറ്റൊരു ടെർമിനൽ തുറന്ന് gdb ഇനിപ്പറയുന്ന രീതിയിൽ റൺ ചെയ്യും ടെസ്റ്റ് കോഡും 5 ാം വരിയിൽ ഒരു ബ്രേക്ക്പോയിന്റ് ഇടുകയും കുറച്ച് ഇൻപുട്ട് A ഉപയോഗിച്ച് റൺ ചെയ്യുകയും ചെയ്യുന്നു കൂടാതെ ഈ പ്രത്യേക ഘട്ടത്തിൽ നമ്മൾ സ്റ്റഫിലെ ഉള്ളടക്കങ്ങൾ നോക്കുന്നു അതിൽ ബഫർ അടങ്ങിയിരിക്കും gdb x 32x esp അത് ഇനിപ്പറയുന്നതാണ് ഇപ്പോൾ main ഫംഗ്ഷൻ ഡിസ്അസംബ്ലിംഗ് ചെയ്യുകയാണെങ്കിൽ copier ശേഷമുള്ള റിട്ടേൺ അഡ്രസ് 0804847A ആണ് എന്ന് മനസ്സിലാകും ഈ റിട്ടേൺ അഡ്രസ് സ്റ്റാക്കിൽ FFFFCFEC എന്ന ലൊക്കേഷനിലാണ് gdb info locals and gdb px buffer എന്ന കമാൻഡ് ലൂടെ ബഫർഇൻറെ അഡ്രസ് നമുക്ക് ലഭിക്കും FFFFCF7C എന്ന ലൊക്കേഷനിലാണ് ബഫർ ഉള്ളത് ഈ സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്ന പേലോഡുകൾ ഫില്ല് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ സ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് ഇവിടെ നിർവചിച്ചിരിക്കുന്ന ഷെൽ കോഡായ പേലോഡ് ഉണ്ടായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഒരു നല്ല അലൈൻമെൻറ് ലഭിക്കുന്നതിനുവേണ്ടി നമ്മൾ തുടക്കത്തിൽ നോപ്സ് ഉപയോഗിക്കുന്നു ഈ നോപ്സ് ഓപ്കോഡ് 90 ആകുന്നു പ്രോസസർ ഈ ഓപ്കോഡ് കാണുമ്പോഴെല്ലാം അത് നിർദ്ദേശം ഒഴിവാക്കാൻ ചെയ്യുന്നു ബഫറിന്റെ തുടക്കത്തിൽ ആരംഭിക്കുന്ന നോപ്പുകൾ നമ്മൾ fill ചെയ്യുന്നു തുടർന്ന് ചില ഓഫ്സെറ്റുകളിൽ 64 ബൈറ്റുകൾ നമ്മൾ ഷെൽ കോഡിൽ ഫില്ല് ചെയ്യുന്നു ഷെൽ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ nopsൽ എവിടെയെങ്കിലും ഒരു address കണ്ടെത്തണം ഇവയിൽ പലതും നിരവധി ശ്രമങ്ങൾക്ക് ശേഷമാണ് ലഭിക്കുന്നത് നമ്മൾ ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന ലൊക്കേഷൻ FFFFCF70 സ്പെസിഫൈ ചെയ്യുന്നു അതിനാൽ ആദ്യം നമ്മൾ ഇനിപ്പറയുന്ന രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെൽ കോഡ് സൃഷ്ടിക്കുന്നു അടുത്ത പേലോഡ് E3 എന്ന് വിളിക്കുന്ന ഫയലിൽ സംഭരിക്കുകയും തുടർന്ന് strcpyയുടെ അവസാനമായ 7 ാം വരിയിൽ ടെസ്റ്റ് കോഡ് ബ്രേക്ക് ഉപയോഗിച്ച് gdb റൺ ചെയ്യുകയും തുടർന്ന് ഇൻപുട്ടായി പുതുതായി രൂപംകൊണ്ട പേലോഡ് നൽകുകയും ചെയ്യുന്നു E3 ൽ എന്ന ഫയലിൽ നിന്ന് ഇൻപുട്ട് എടുത്ത് ഇത് പ്രത്യേക ഇൻപുട്ടിനൊപ്പം റൺ ചെയ്യുന്നു copier ഫംഗ്ഷനും strcpyഉം എക്സിക്യൂട്ട് ചെയ്യുന്നു നമ്മൾ നൽകിയ സ്ട്രിംഗ് 100 ബൈറ്റിനേക്കാൾ വളരെ വലുതായതിനാൽ ബഫർ തിരുത്തിയെഴുതുകയും സ്ട്രിംഗ് തന്ത്രപരമായി സൃഷ്ടിക്കുകയും ചെയ്യുന്നു സ്റ്റാക്കിൽ റിട്ടേൺ അഡ്രസ് റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ട് അത് ബഫറിലെ പേലോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു ഇത് കൂടുതൽ വിശദമായി നോക്കാം നമ്മൾ സ്റ്റാക്കും നമ്മൾ സൃഷ്ടിച്ച Payload ഉം പരിശോധിക്കുന്നു ഈ പ്രത്യേക ഘട്ടത്തിൽ ബഫർ ആരംഭിക്കുന്ന പോയിന്റ്ൽ ബൈറ്റ് 90 അടങ്ങിയ 64 നോപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അപ്പോൾ നമുക്ക് കാണാൻ കഴിയും പേലോഡ് ഈ ലൊക്കേഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഈ അലൈൻമെൻറ് ലിറ്റിൽ ഇൻഡിയൻ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ C3C089C3 വ്യക്തമാക്കുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കാണുന്നത് ലിറ്റിൽ ഇൻഡിയൻ നൊട്ടേഷൻ ആണ് ഈ ഷെൽ കോഡ് ഉൾക്കൊള്ളുന്നത് അടുത്ത 32 ബൈറ്റുകൾ ആണ് ഒരു ഷെൽ സൃഷ്ടിക്കുന്ന മെഷീൻ പ്രവർത്തനങ്ങളെ ഷെൽ കോഡ് യഥാർത്ഥത്തിൽ എൻകോഡ് ചെയ്യുന്നു ഷെൽ കോഡ് എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ ഇപ്പോൾ പോകുന്നില്ല അതിനാൽ നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കായി ഈ ഷെൽ കോഡ് സൃഷ്ടിക്കുന്ന വിവിധ ഉപകരണങ്ങൾ ഓൺലൈനിൽ ഉണ്ട് നിങ്ങൾ ഇത് യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ലിറ്റിൽ എൻഡിയൻ നൊട്ടേഷനിലെ ഷെൽ കോഡിന്റെ ആദ്യത്തെ നാല് ബൈറ്റുകളും അടുത്ത നാല് ബൈറ്റുകളും അങ്ങിനെ പോകുന്നതായി നമ്മൾ കാണുന്നു ഇപ്പോൾ ഷെൽ കോഡ് ഇവിടെ അവസാനിക്കുന്നത് 420BCD80ൽ ആണ് തുടർന്ന് നമുക്ക് ധാരാളം പാഡിംഗ് ഉണ്ട് വാസ്തവത്തിൽ നമുക്ക് 112 64 32 ബൈറ്റുകൾ എ യുടെ പാഡിംഗ് ആണ് അത് 1 2 3 4 എന്നിവയാണ് അതിനാൽ ഇത് 64 ബൈറ്റുകളുടെ 112 64 32 എന്ന പാഡിംഗിൽ അവസാനിക്കുന്നു അവസാനമായി റിട്ടേൺ വിലാസം ഉണ്ടായിരിക്കേണ്ട ലൊക്കേഷൻ FFFFCF70 എന്ന മൂല്യത്തിനൊപ്പം പുനരാലേഖനം ചെയ്യപ്പെടുന്നു ഇതിനർത്ഥം കോപ്പിയർ ഫംഗ്ഷൻ അതിന്റെ എക്സിക്യൂഷൻ പൂർത്തിയാക്കുമ്പോൾ അതിൽ നിന്ന് മെമ്മറി ഉള്ളടക്കങ്ങൾ കണ്ടെത്തി EIP രജിസ്റ്ററിൽ ഇടുന്നു FFFFCF70ന് അനുബന്ധമായുള്ള മെമ്മറി ഇവിടെയുണ്ട് അതിനാൽ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ഈ സ്ഥാനത്തേക്ക് പോയിന്റുചെയ്യുകയും അത് ഇവിടെ നിന്ന് ഓരോ ബൈറ്റും ഏടുക്കുകയും ചെയ്യും ഇത് 90909090 ആണ് തുടർന്ന് നോപ്സ് എല്ലാം എക്സിക്യൂട്ട് ആരംഭിക്കും തുടർന്ന് ഷെൽ കോഡും ഈ ലൊക്കേഷൻ എക്സിക്യൂട്ട് ചെയ്യും ക്രമേണ ഈ 32 ബൈറ്റുകളുടെ ഓപ്പറേഷൻ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ഷെൽ സൃഷ്ടിക്കപ്പെടുന്നു ഒരു interrupt 80H ഉപയോഗിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്കുള്ള സിസ്റ്റം കോൾ വഴിയാണ് ഷെൽ മികച്ച രീതിയിൽ സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ഒരു പുതിയ പ്രോസസ്സ് സൃഷ്ടിക്കണമെന്ന് OSനോട് പറയുന്നു നമുക്ക് യഥാർത്ഥത്തിൽ ഈ കോഡ് പ്രവർത്തിപ്പിച്ച് ഷെൽ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ ഇത് പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് gdb ഉപയോഗിക്കാം നമുക്ക് testcode എന്ന കമാൻഡ് ഉപയോഗിച്ച് ഒരു ഷെൽ സൃഷ്ടിക്കാം ഈ ഷെൽ "sh" ഷെൽ ആയതിനാൽ നമുക്ക് എല്ലാ ഷെൽ കമാൻഡുകളും ചെയ്യാൻ കഴിയും ഈ ഷെൽ നിലവിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രക്രിയകൾ കാണുന്നതിന് നിങ്ങൾക്ക് "ps" ഉപയോഗിക്കാം കൂടാതെ മൂന്ന് പ്രോസസ്സുകളുണ്ടെന്ന് നമ്മൾ കാണുന്നു "ps" എന്നത് നമ്മൾ നൽകിയ കമാൻഡ് രക്ഷകർത്താവ് "sh" പ്രോസസ് ആണ് ഈ ടെർമിനൽ ഉപയോഗിച്ച് സൃഷ്ടിച്ച യഥാർത്ഥ ബാച്ച് ഷെല്ലും ഇവിടെയുണ്ട് c എന്ന ഈ പ്രത്യേക കോഡ് ഒരു പേലോഡുപയോഗിച്ച് ഈ രീതിയിൽ കുത്തിവച്ചതായി നമ്മൾ കണ്ടു ഓവർഫ്ലോ ചെയ്യാൻ ബഫറിനേയും ബഫറിൽ ഉണ്ടായിരുന്ന പേലോഡിനേയും നമ്മൾ നിർബ്ബന്ധിക്കുന്നു ക്ഷുദ്രവെയറുകളിൽ പലരും യഥാർത്ഥത്തിൽ ഒരു പേലോഡ് നേടുന്ന ഈ പ്രത്യേക സാങ്കേതികത ഉപയോഗിക്കുന്നു ഒരു ആക്രമണകാരിക്ക് അത്തരമൊരു പേലോഡ് നേടാൻ കഴിഞ്ഞാൽ അയാൾക്ക് സിസ്റ്റത്തിൽ എന്തും ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് ഇതുപോലുള്ള എല്ലാ ഒബ്ജക്റ്റ് ഫയലുകളും ഇല്ലാതാക്കാനും സാധിക്കും